ഹലോ എവരിവൺ ഡിസാസ്റ്റർ റിക്കവറി ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണം മുംബൈ ഇന്ത്യ ഘാന എന്നിവിടങ്ങളിൽ നിന്ന് സ്ഥിതിവിവരക്കണക്കുകൾ നേടി ഡിസാസ്റ്റർ റിസ്ക് ഗവെർണൻസിൽ പാർട്ടിസിപ്പേഷൻ കേന്ദ്രീകരിക്കുന്നു ദുരന്തസാധ്യതാ ഭരണത്തിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഒരു പ്രധാന ഘടകമാണെന്ന് ഞങ്ങൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മുൻ സ്ലൈഡുകളിൽ ഞങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തു ഞങ്ങൾക്ക് ചില ഫ്രെയിംവർക് ആവശ്യമായി വരുന്നു ആ ഫ്രെയിംവർക്കിനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് പ്രോസസ്സ് പാർട്ട് അടുത്തത് ഔട്ട്കം പാർട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അതുപയോഗിച്ച് പാർട്ടിസിപ്പേഷൻറെ കോമ്പ്രിഹെൻസീവ് ഫ്രെയിംവർക്കിന്റെ ഈ വേരിയബിളുകൾ നമുക്ക് ലഭിക്കും ഒന്ന് പ്രോസസ്സ് മറ്റൊന്ന് വലത് വശത്തുള്ള ഔട്ട്കം ഇത് ശരിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിൽ ആളുകൾ എത്രത്തോളം പങ്കെടുക്കുന്നു എന്ന് മനസിലാക്കാൻ ഇത് ശരിക്കും നമ്മളെ സഹായിക്കുമോ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റും കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഹെല്പ്ഫുൾ ടൂൾ ആകുമോ എന്ന് നമുക്ക് നോക്കാം ഇത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് ഇതും മുംബൈയാണ് ബാന്ദ്ര കുർള സമുച്ചയത്തിന് എതിർവശത്തുള്ള ധാരാവി പ്രദേശത്തുള്ള മുംബൈ ഇതാണ് മിഥി നദി കണ്ടൽ വനം ഇതാണ് ബാന്ദ്ര കുർള ഇതാണ് ധാരാവി പ്രദേശങ്ങൾ ഇതാണ് ഞങ്ങളുടെ പഠന പ്രദേശം 2005 ൽ മുംബൈയിൽ ഒരു ദുരന്തമുണ്ടായി ഒരു ദിവസം 1000 ഏതാണ്ട് 1000 മില്ലിമീറ്റർ മഴ പെയ്തു അത് നഗരത്തെ സ്തംഭിപ്പിച്ചു നഗരത്തിന്റെ 60 പരോക്ഷമായോ നേരിട്ടോ ബാധിച്ചു ഈ വെള്ളപ്പൊക്കത്തിൽ ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ മാത്രം വെള്ളപ്പൊക്കത്തിൽ മാത്രം 1000 പേർ മരിച്ചു ധാരാവി പ്രദേശങ്ങളുടെ ചിത്രങ്ങളിലൊന്നാണിത് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഇത് മഹാരാഷ്ട്രയാണ് ഇത് മുംബൈയാണ് നിങ്ങൾക്ക് മുംബൈ കാണാൻ കഴിയും പിന്നെ ഇതാണ് നമ്മുടെ പഠന മേഖല ധാരാവി ഇതാണ് വിഹാർ പവായ് ഇതാണ് ധാരാവി പ്രദേശത്തേക്ക് വരുന്ന മിഥി നദി ഇതാണ് ധാരാവിയിൽ നമ്മുടെ പഠന മേഖല അടിസ്ഥാനപരമായി കാലാക്വില രാജീവ് ഗാന്ധി നഗർ എന്നീ രണ്ട് പഠന മേഖലകൾ മിഥി നദീതീരത്തെ ജനവാസ കേന്ദ്രത്തിൽ കൈയേറ്റ ഭൂമിയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ വ്യക്തമായി കാണാം അത് മുമ്പ് കണ്ടൽക്കാടായിരുന്നു 100 ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള ഈ ചെറിയ സ്ഥലത്തിനുള്ളിൽ മൊത്തം ജനസംഖ്യ 25000 ആണെന്നതിന്റെ ചില കാഴ്ചകൾ ഇവയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ക്യോട്ടോ യൂണിവേഴ്സിറ്റിയുടെ മെഗാസിറ്റി മുംബൈയ്ക്കായി ഒരു സംയോജിത ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ഒപ്പം ഇവിടെയുള്ള മുംബൈയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ജെജെ കോളേജ് ഓഫ് ആർക്കിടെക്ചർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് തുടങ്ങിയ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സഹകരണത്തോടെ ഇന്റഗ്രേറ്റഡ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് മെഗാസിറ്റി മുംബൈ എന്ന ഈ പദ്ധതിയിൽ അവർ പങ്കാളികളായിരുന്നു ഞങ്ങൾ ഒരു വാർഡിൽ ജി നോർത്ത് വാർഡിൽ ഒരു ചെറിയ ഓഫീസ് സ്ഥാപിച്ചു MCGM അവിടെ നിന്ന് ഒരു ഗവേഷണ കേന്ദ്രം ഇതൊരു ടൈംലൈൻ ആണെന്ന് സങ്കൽപ്പിക്കുക ഞങ്ങൾ ധാരാവിയിൽ പോയി ആളുകളോട് ഹേ ഹലോ എങ്ങനെയുണ്ട് എന്ന് പറയാൻ തുടങ്ങി തുടർന്ന് ഞങ്ങൾ തുടങ്ങി ജനങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി ആളുകൾ ഹലോ പറയുന്നു അവർ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അവരുടെ ഉപജീവന പ്രശ്നങ്ങൾ അവരുടെ ജോലി കുടുംബ പ്രശ്നങ്ങൾ ഭവന പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അവർ ആശങ്കാകുലരാണ് ഞങ്ങൾ എവിടെയാണെങ്കിലും ചായക്കടയിലും ജ്യൂസ് കടയിലും എല്ലാം ഞങ്ങൾ സംസാരിച്ചു തുടർന്ന് അവർ ഈ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തെയും വെള്ളക്കെട്ടിനെയും കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഞങ്ങൾ തുടർച്ചയായ ചർച്ചകൾ നടത്തി ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമോ നിങ്ങൾക്ക് നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാനാകുമോ അതിനുമുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ പദ്ധതി യഥാർത്ഥത്തിൽ അവർക്ക് നൽകിയില്ല ഈ നിർദ്ദേശം അവരിൽ നിന്നാണ് വരേണ്ടതെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിച്ചു അവരുടെ ആശങ്കകൾ മനസിലാക്കാനും ഞങ്ങൾ ശ്രമിക്കേണ്ടേ അതിനാൽ എല്ലാ വർഷവും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വെള്ളപ്പൊക്കം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സഹായം ആവശ്യമാണെന്ന് അവർ പറഞ്ഞു അതിനാൽ ഞങ്ങൾ റിസ്ക് മാപ്പിംഗ് വികസിപ്പിച്ചെടുത്തു തുടർന്ന് കാലക്രമേണ ഞങ്ങൾ അവരുമായി ചേർന്ന് ഒരു ആക്ഷൻ പ്ലാൻ വികസിപ്പിച്ചെടുത്തു ഈ ഡിസിഷൻ മേക്കിങ് പ്രോസസ്സിൽ ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റികളെ എങ്ങനെ ഉൾപ്പെടുത്തി എന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും അതായിരുന്നു ആദ്യ ഘട്ടം ഞങ്ങൾ ആദ്യം പങ്കാളിയെ തിരിച്ചറിഞ്ഞു ഞങ്ങൾ ഒരു ബേസ് മാപ്പ് വികസിപ്പിച്ചെടുത്തു കൂടാതെ രണ്ടാം ഘട്ടം ഞങ്ങൾ റിസ്ക് മാപ്പിംഗും ജോലിയുടെ മുൻഗണനയും വികസിപ്പിച്ചെടുത്തു ഫെബ്രുവരിയിൽ ഞങ്ങൾ ഈ സർവേ ആരംഭിച്ചു ഞങ്ങളുടെ ചില വിദ്യാർത്ഥികൾ രാജീവ് ഗാന്ധി നഗറിൽ സർവേ നടത്തി മാപ്പിംഗ് ഗ്രൂപ്പ് ഡിസ്കഷന്സ് നഗര നിരീക്ഷണം നിരീക്ഷണങ്ങൾ ഫോട്ടോഗ്രാഫുകൾ സെക്കണ്ടറി ഡാറ്റ കളക്ഷൻ ടെക്നിക്സ് ആൻഡ് മെതേഡ്സ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ടൂളുകൾ ഞങ്ങൾ കണ്ടെന്റ് അനാലിസിസ് ഡോക്യുമെന്റേഷനുകൾ തുടങ്ങിയവയിൽ ഉപയോഗിച്ചു ഓകെ അങ്ങനെയെങ്കിൽ സർവേയിലെ ചില ഫോട്ടോഗ്രാഫുകൾ ഇതാണ് ഞങ്ങൾ ഓപ്പൺ എൻഡഡ് ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷന്സ് എന്നിവ നടത്തിയതിന്റെ ചില കാഴ്ചകളും ചിത്രങ്ങളും ഇവിടെയുണ്ട് കമ്മ്യൂണിറ്റിയുമായുള്ള ഞങ്ങളുടെ ചർച്ചകളുടെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഇതാ ഞങ്ങൾ ആദ്യം മാപ്പ് വികസിപ്പിക്കുകയും തുടർന്ന് ഞങ്ങൾ അതിൽ ഡാറ്റ ഇടുകയും ചെയ്യുന്നു ആഗോള മികവിന്റെ കേന്ദ്രമായ ക്യോട്ടോ യൂണിവേഴ്സിറ്റി ഹ്യൂമൻ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് ടീമിന്റെയും പ്രാദേശിക കമ്മ്യൂണിറ്റി അംഗങ്ങളുടെയും ഗ്രേറ്റർ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെയും പ്രത്യേകിച്ചും ജി നോർത്ത് വാർഡുകളുടെ പങ്കാളിത്തം എന്നിങ്ങനെയുള്ള ആഗോള മികവിന്റെ കേന്ദ്രമായ ഞങ്ങളുടെ GCOE ൽ നിന്ന് ആരംഭിക്കുന്ന വിവിധ തരത്തിലുള്ള പങ്കാളികളുടെ നിലവാരം ഇതാ മാപ്പിംഗിൽ ഞങ്ങൾ അവരെ സഹായിക്കുന്നു ഞങ്ങൾ സർവേയർമാരായും പ്രവർത്തിക്കുന്നു സർവേയുടെ പങ്കും ലക്ഷ്യവും സമൂഹത്തോട് വിശദീകരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയിലെ പ്രധാന അഭിനേതാക്കളിൽ ഒരാളാണ് പ്രാദേശിക സമൂഹം കൂടാതെ MCGM അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളും ലോജിസ്റ്റിക്സ് പിന്തുണ നൽകുന്നതിനും ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും സഹായിക്കുന്നതിനും മത രാഷ്ട്രീയ സംഘടനകൾ ഞങ്ങളെ സഹായിച്ചു ലാൻഡ് യൂസ് ഡാറ്റ റെസിഡൻഷ്യൽ കൊമേർഷ്യൽ പബ്ലിക് പ്ലേഗ്രൌണ്ട് തുടങ്ങി അടിസ്ഥാന സൌകര്യങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടേഴ്സ് ക്ലിനിക് കമ്മ്യൂണിറ്റി ടോയ്ലറ്റ് കമ്മ്യൂണിറ്റി ടാപ്പുകൾ സ്കൂൾ തുടങ്ങി നിരവധി ഡാറ്റ ഞങ്ങൾ അവിടെ ശേഖരിച്ചു ഞങ്ങൾ പരിഗണിച്ച ഹസാഡ് പാരാമീറ്ററുകൾ വെള്ളപ്പൊക്കത്തിന്റെ ദൈർഘ്യം വെള്ളപ്പൊക്ക സമയത്തെ ജലനിരപ്പ് ഇടയ്ക്കിടെ ബാധിച്ച പ്രദേശങ്ങൾ കെട്ടിടത്തിന്റെ ഉയരം നിർമ്മാണ സാമഗ്രികൾ കെട്ടിട സാഹചര്യങ്ങൾ പ്ലിൻത്ത് ലെവൽ ഇവയെല്ലാം ഞങ്ങൾ ശേഖരിച്ചു 2006 ന് ശേഷം 2006 ന് ശേഷം രാജീവ് ഗാന്ധി നഗറിന്റെ ഭാഗങ്ങളിൽ ഒന്നായ നിരവധി റെസിഡൻഷ്യൽ ഏരിയ ഇത് യഥാർത്ഥത്തിൽ ഒരു റോഡായിരുന്നു പലതും വാണിജ്യ മേഖലകളിലേക്ക് മാറ്റപ്പെട്ടു എന്നതിന്റെ ചില വസ്തുതകൾ ഇതാ ഇത് അനുവദനീയമല്ലെങ്കിലും ആളുകൾ G1 ഘടന നിർമ്മിക്കാൻ തുടങ്ങി എന്നാൽ രാജീവ് ഗാന്ധി നഗറിൽ ഇപ്പോൾ പലരും G1 ഘടന നിർമ്മിക്കുന്നുണ്ടെന്ന് കമ്മ്യൂണിറ്റി റിപ്പോർട്ട് ചെയ്തു അത് പക്ക അല്ലെങ്കിൽ സെമി പക്ക കോൺക്രീറ്റ് സ്ട്രക്ച്ചറാകാം അവയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഗ്രൂവ് ചെയ്തിരുന്നില്ല ഡ്രെയിനേജ് നിലവാരം നിങ്ങൾക്ക് ഇവിടെ കാണാം കൂടാതെ വൈദ്യുതി വിതരണം ഇതിന് എളുപ്പത്തിൽ വൈദ്യുതീകരിക്കാൻ കഴിയും കൂടാതെ അടിയന്തരാവസ്ഥയിലോ വെള്ളപ്പൊക്കത്തിലോ ആളുകളെ കൊല്ലാൻ വൈദ്യുതിക്ക് കഴിയും പ്രവേശന റോഡുകൾ വളരെ ഇടുങ്ങിയതാണ് നിങ്ങൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല രണ്ട് ആളുകൾക്ക് ഇതിൽ നിന്ന് എളുപ്പത്തിൽ കടന്നുപോകാൻ കഴിയില്ല റോഡുകൾ സിഗ് സാഗ്ഗ്ഡ് ആണ് അതിനാൽ ഈ റോഡുകൾ വെള്ളത്താൽ നിറയുമ്പോൾ നിങ്ങൾക്ക് കാലുകുത്താൻ കഴിയാത്തവിധം വെള്ളപ്പൊക്കമോ പ്രളയങ്ങളോ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കാല് എവിടെയാണ് വയ്ക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ 2005 ൽ അത് മിഥി നദിയായിരുന്നു ഇതാണ് റോഡ് പ്രളയം വന്നത് ഇങ്ങനെയാണ് പിന്നെ ഏകദേശം 8 ആയി അതിനാൽ 2005 ൽ ആളുകൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിഞ്ഞില്ല ഒരു നിശ്ചിത സ്ഥലമില്ല എന്നതിന്റെ ഒരു കാരണം മുൻകൂട്ടി മുന്നറിയിപ്പ് ഇല്ലായിരുന്നു ഗൃഹനാഥൻ വീട്ടിൽ ഇല്ലായിരുന്നു അതിനാൽ സ്ത്രീക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള നേതൃത്വ തീരുമാനം എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ വൈകിയാണ് അവർ പ്രദേശം മുഴുവൻ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കൂടാതെ സ്വത്ത് നഷ്ടപ്പെടുമെന്നോ കൊള്ളയടിക്കുമെന്നോ ഉള്ള ഭയവും അവർക്ക് ഉണ്ട് യഥാർത്ഥത്തിൽ ഒഴിപ്പിക്കാൻ കഴിയാത്ത ഈ കാരണങ്ങളാൽ എങ്ങനെ ഒഴിപ്പിക്കണമെന്ന് ആളുകൾക്ക് അറിയില്ല മറ്റൊന്ന് പ്രളയത്തിന് മുമ്പ് അതൊരു വീടായിരുന്നു അത് അങ്ങനെയായിരുന്നു പിന്നീട് പ്രാദേശിക ഭരണകൂടം റോഡ് ഉയർത്താൻ തുടങ്ങി വർഷം തോറും റോഡ് ഉയർത്തി എന്നാൽ സംഭവിച്ചതിന്റെ ഫലമായി അത് വീടുകളെ കൂടുതൽ ദുർബലമാക്കുന്നുവെന്നും അവർക്ക് എളുപ്പത്തിൽ വീട്ടിലേക്ക് വെള്ളം വരാമെന്നും അത് ശരിക്കും അപകടസാധ്യതയുള്ളതാണെന്നും അവർക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അവർ പങ്കുവെച്ച ചില ആശങ്കകൾ ഇവയാണ് മിഥി നദിയിൽ ചിലർ കയ്യേറ്റം നടത്തുന്നുണ്ട് ഇത് മിഥി നദിയാണ് പുതിയ നിർമ്മാണങ്ങൾ ഉണർത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ മുനിസിപ്പൽ അതോറിറ്റി അടുത്തിടെ ഈ സ്ഥലങ്ങൾ പൊളിച്ചുമാറ്റി എന്നാൽ വീണ്ടും പുതിയ നിർമ്മാണങ്ങൾ വരുന്നു അതിനാൽ ആളുകൾ പങ്കുവെച്ച ചില വസ്തുതകൾ ഇവയാണ് 1980 ൽ അത് പൂർണ്ണമായും മിഥി നദിക്കരയിലുള്ള ഒരു കണ്ടൽ പ്രദേശമായിരുന്നു അതാണ് റോഡ് ഇതാണ് ധാരാവി പ്രദേശം എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കണ്ടൽക്കാടുകളായിരുന്നുവെന്ന് ഞങ്ങൾ കണ്ടെത്തി 1990 കളിൽ 1990 കളുടെ തുടക്കത്തിലോ 1980 കളുടെ അവസാനത്തിലോ ചില സെറ്റിൽമെന്റുകൾ വന്നു അവർ താൽക്കാലിക വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളികൾ 1995 ൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വീണ്ടും 2000 2005 2013 എന്നിങ്ങനെ കാണാൻ കഴിയും അതിനാൽ അതിൽ നിന്ന് വളരെ പഴയ ഒരു സെറ്റിൽമെന്റ് ആയിരുന്നില്ല രാജീവ് ഗാന്ധി നഗറിലെ ഒരു കെട്ടിടത്തിന്റെ ഉയരം ഇവിടെയുണ്ട് ഭൂരിഭാഗം വീടുകളും ഗ്രൌണ്ട് ഫ്ലോർ മാത്രമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഈയിടെ റോഡരികിൽ ആളുകൾ G1 ഘടന നിർമ്മിക്കുന്നു അത് നിങ്ങൾക്ക് ഇവിടെ ചുവപ്പ് നിറത്തിൽ വലതുവശത്ത് കാണാം 2005 ലെ വെള്ളപ്പൊക്കവും ഈ പ്രദേശങ്ങളും മിഥി നദിയോട് ചേർന്നുള്ള റെഡ് മാർക്ക് പ്രദേശങ്ങളും ഈ പ്രദേശങ്ങളിൽ ആറടി മുതൽ പത്തടി വരെ വെള്ളമുണ്ടായിരുന്നു ആറ് മുതൽ പത്ത് അടി വരെ അതായത് മനുഷ്യന്റെ ഉയരത്തേക്കാൾ കൂടുതൽ കൂടാതെ മിക്ക ഭാഗങ്ങളിലും അവ രണ്ടുമുതൽ അഞ്ച് അടി വരെ ഉണ്ടായിരുന്നു ഒട്ടുമിക്ക ഭാഗങ്ങളിലും റോഡിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ അവർ കാര്യമായി കഷ്ടപ്പെട്ടില്ല ഒരടി വെള്ളം മാത്രം വാട്ടർലോഗിംഗിൽ ഈ ശ്രേണിയിൽ അവർ വാർഷിക വെള്ളക്കെട്ട് അഭിമുഖീകരിക്കുന്നു മിക്ക കെട്ടിടങ്ങളിലും മിക്ക വീടുകളിലും പ്രതിവർഷം ഒന്നോ രണ്ടോ അടി വരെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ തുടരുന്നു മിക്ക കേസുകളും ഓക്കേ ആണ് ചിലത് കുറവാണ് ചിലത് കൂടുതലാണ് 2005 ലെ വെള്ളപ്പൊക്കത്തെത്തുടർന്ന് കെട്ടിടത്തിനുണ്ടായ കേടുപാടുകൾ വീടുകൾക്കുള്ള നാശനഷ്ടങ്ങൾ നീണ്ടുനിൽക്കുന്ന ആസ്തി എന്നിവയെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും മാഹിം ക്രീക്കിന്റെയോ മിഥി നദിയുടെയോ സമീപത്തുള്ള വീടുകൾ അവയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് വലിയ കേടുപാടുകൾ നിങ്ങൾക്ക് മധ്യഭാഗത്ത് കാണാൻ കഴിയും അടുത്തുള്ള ആളുകൾ അവർക്ക് കേടുപാടുകൾ കുറവാണ് എന്നാൽ മാഹിം ക്രീക്കിന്റെയോ നദിയുടെയോ സമീപത്തുള്ള ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു കിടപ്പാടം ചുവരുകൾ തുടങ്ങി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതിനാൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചില രേഖാചിത്രങ്ങൾ ഇതാ അതിനാൽ കൂടുതൽ മാപ്പിംഗുകൾ ബന്ധിപ്പിക്കുന്നതിനുള്ള ഈ എക്സർസൈസ് പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ ആളുകളോട് ആവശ്യപ്പെടുത്തേണ്ടത് എന്തെന്നാൽ ഈ റിസ്ക് മാപ്പിംഗ് പ്രോജക്റ്റിൽ നിങ്ങൾ എങ്ങനെയാണ് ഉൾപ്പെട്ടതെന്ന് ദയവായി അടയാളപ്പെടുത്തുക അത് വിജയിച്ചോ ഇല്ലയോ അതിനാൽ മിക്ക കേസുകളും ഞങ്ങൾ നന്നായി ചെയ്തു അതായത് നേരത്തെയുള്ള ഇടപഴകൽ പങ്കാളിയുടെ വെറും പ്രാതിനിധ്യം തുടർച്ചയായ ഇടപഴകലുകൾ വ്യക്തവും അംഗീകരിക്കപ്പെട്ടതുമായ ഒബ്ജക്റ്റ് എന്നിവ പോലെ എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് റിസോഴ്സ് അവൈലബിലിറ്റി കുറവാണ് ജനങ്ങളുടെ ശക്തിയോ ശേഷിയോ മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവർക്ക് തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള ശക്തി കുറവാണ് കാരണം അവർക്ക് വിഭവങ്ങൾ കുറവാണ് അതിനാൽ അവർക്ക് സ്വന്തം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാൽ എന്താണ് നഷ്ടമായത് ഞങ്ങൾ ആളുകളോട് ചോദിക്കുന്നു ഈ പാരാമീറ്ററുകൾ ശരിയാണ് എന്നാൽ ഈ എക്സിർസിസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ശരിക്കും ചിന്തയ്ക്കു അതിനാൽ അവർ ഞങ്ങളോട് പറഞ്ഞു വിവരങ്ങൾ മികച്ചതാണ് പക്ഷേ പാർട്ടിസിപ്പറ്റോറി അപ്പ്രോച്ച് അർത്ഥവത്താണ് പക്ഷെ വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ മാത്രമേ ഞങ്ങളുടെ പങ്കാളിത്തം അർത്ഥവത്താകൂ ആസൂത്രണം ചെയ്യാവുന്ന ചില ആക്ഷൻ പ്ലാൻ ഞങ്ങൾക്ക് എന്തുചെയ്യാനാകുമെന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനാകും അതിനാൽ ഞങ്ങൾ ഇൻഫൊർമേഷനിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റിലേക്ക് നീങ്ങേണ്ടതുണ്ട് കൂടാതെ സാധ്യമായ ചില ഫലങ്ങളും ഞങ്ങൾ കാണേണ്ടതുണ്ട് അതിനാലാണ് ആളുകൾക്ക് പങ്കെടുക്കാൻ സ്വയം പ്രചോദിപ്പിക്കാൻ കഴിയുന്നത് വ്യായാമം വളരെ രസകരമായിരിക്കണം ഇത് ഇതിനകം തന്നെ ഗുരുതരമായ കാര്യമാണ് എന്നാൽ ഈ വ്യായാമത്തിൽ നമ്മൾ വളരെയധികം രസകരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം തുടർന്ന് കൂടുതൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടണം നിങ്ങൾ ഇത് കൂടുതൽ ശാന്തമായ രീതിയിൽ ചെയ്യണം അതുകൊണ്ട് അവരുടെ അപേക്ഷ പരിഗണിച്ചു ഈ പ്രദേശത്തിന്റെ റീകൺസ്ട്രക്ഷൻ റീഹാബിലിറ്റേഷൻ റെസ്പോൺസ് റിലീഫ് എന്നിവയ്ക്കായി ഞങ്ങൾ ഒരു കർമ്മ പദ്ധതി വികസിപ്പിക്കാൻ തുടങ്ങി അതിനാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ പട്ടികപ്പെടുത്തി ബാഹ്യ സഹായമില്ലാതെ അവർക്ക് എന്തുചെയ്യാൻ കഴിയും ബാഹ്യ സഹായത്തോടെ അവർക്ക് എന്തുചെയ്യാൻ കഴിയും ആര് ഏത് തരത്തിലുള്ള ജോലി ചെയ്യും എന്നതിനെ പ്രതിനിധീകരിക്കുന്ന ചില കാര്യങ്ങൾ ഇവയാണ് എല്ലാ സന്നദ്ധപ്രവർത്തകരെയും വിളിക്കാൻ അവർ തിരിച്ചറിഞ്ഞ പ്രവർത്തനങ്ങളുടെ എണ്ണം ഇവിടെ കാണാം വികലാംഗരെയും പരിക്കേറ്റവരെയും പ്രായമായവരെയും രക്ഷിക്കാൻ അടിയന്തിര സാഹചര്യങ്ങളിൽ ആളുകളെ രക്ഷിക്കാൻ മുന്നോട്ട് വരിക സർവൈവൽ കിറ്റുകളുടെ ഉള്ളടക്കങ്ങളുടെ ലിസ്റ്റ് നൽകാനും വിതരണം ചെയ്യാനും സുപ്രധാന രേഖകൾ കൊണ്ടുപോകാൻ ആളുകളെ അഭ്യർത്ഥിക്കാനും പ്രത്യേകിച്ചും ഒഴിപ്പിക്കൽ സമയത്തെ വിവിധ തിരിച്ചറിയൽ കാർഡുകൾ പോലെ കൂടാതെ പുനരധിവാസത്തിനും മുന്നൊരുക്കത്തിനുമുള്ള പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് ബിഎംസി പ്രാദേശിക നേതാക്കളെ കണ്ടെത്തി പ്രാദേശിക വെള്ളപ്പൊക്ക പ്രശ്നങ്ങളും അപകടസാധ്യതകളും കാണാനും റിപ്പോർട്ട് ചെയ്യാനും സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട അടിയന്തര സേവനങ്ങളുടെ കോൺടാക്റ്റുകളുടെ ലിസ്റ്റ് തയ്യാറാക്കാനും ആരും മാലിന്യം ഗട്ടറുകളിൽ വലിച്ചെറിയുന്നില്ലെന്ന് ഉറപ്പാക്കാനും തുടങ്ങി അതിനാൽ അവർക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നതും ധാരാളം അഭിനേതാക്കൾ ഉൾപ്പെട്ടിരിക്കുന്ന ബാഹ്യ ഏജൻസികളുടെ സഹായത്തോടെ അവർക്ക് ചെയ്യാൻ കഴിയുന്നതും നമുക്ക് ചെയ്യാൻ കഴിയും അതുപോലെ ഈ പട്ടികയും തുടർന്നു ഈ ബ്രെയിൻസ്റ്റോമിംഗ് സെഷനുകളിലെ ചില ഫോട്ടോഗ്രാഫുകൾ ഇവയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കോർ ആക്ഷൻ കമ്മ്യൂണിറ്റി ചാൾ കമ്മിറ്റികൾ കമ്മ്യൂണിറ്റി വോളന്റിയർമാർ തുടങ്ങി നിരവധി കമ്മ്യൂണിറ്റി കമ്മറ്റികളും അവർ വികസിപ്പിച്ചെടുക്കുന്നതും അവസാനമായി നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ സിവിൽ ഡിഫൻസ് എൻജിഒകൾ ഗവേഷകർ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവയിൽ നിന്നും സഹായം ആവശ്യപ്പെടുന്നു മുൻഗണനാ മേഖലകൾ എന്തൊക്കെയാണ് വിദൂര മുൻഗണന അതിനാൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് വളരെ പ്രധാനമാണ് ഇത് പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ഞങ്ങളുടെ ആഘോഷമാണിത് കൂടാതെ ധാരാവി കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനുള്ള കർമ്മ പദ്ധതി എന്നാൽ ആളുകൾ എന്തിനാണ് പങ്കെടുക്കുന്നത് എന്ന ചോദ്യം പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചോദ്യമായി അവശേഷിക്കുന്നു ഇവയാണ് ശരിയായ മാനദണ്ഡങ്ങൾ വലതുവശത്ത് ഇവയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇടത് വശത്ത് പ്രോസസ്സ് അടിസ്ഥാനമാക്കിയുള്ള മാനദണ്ഡം വലതുവശത്ത് നിങ്ങൾക്ക് ചില റഫറൻസുകൾ കാണാം ഇടത് വശത്ത് നിങ്ങൾക്ക് സക്സിസ്സ്ഫുൾ ഇമ്പ്ലിമെന്റഷൻ മ്യൂച്ചൽ ട്രസ്റ്റ് ഓണർഷിപ് കോൺഫ്ലിക്റ് റെസൊലൂഷൻ സെല്ഫ് റിലൈൻസ് എന്നിവ കാണാനാകും ഇത് ഫലത്തിന്റെ മാനദണ്ഡമായിരിക്കണം വലതുവശത്ത് ഞങ്ങൾ നൽകുന്ന റഫറൻസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഈ മാനദണ്ഡങ്ങൾ ഒന്നുകിൽ ഗവേഷകർ പ്രോജക്ട് ഫെസിലിറ്റേറ്റർമാർ ലോക്കൽ ഗവൺമെന്റ് എൻജിഒകൾ എന്നിവർ പ്രോസസ് അല്ലെങ്കിൽ ഫലത്തെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്തു നഷ്ടമായത് ഞങ്ങൾ കമ്മ്യൂണിറ്റികളുടെ പങ്കാളിത്തം തേടുകയാണ് എന്നാൽ പങ്കാളിത്തത്തിന്റെ അർത്ഥം എന്താണെന്ന് നിർവചിക്കുന്നതിൽ സമൂഹം ഒരിക്കലും ഉൾപ്പെട്ടിരുന്നില്ല എന്നതാണ് അവർ എങ്ങനെയാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർ എങ്ങനെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് എല്ലായ്പ്പോഴും പുറത്തുനിന്നുള്ളവരാണ് യഥാർത്ഥ പങ്കാളികളല്ലാത്തവർ ഇരകളല്ലാത്തവർ ഞങ്ങൾ ആരുടെയെങ്കിലും പങ്കാളിത്തത്തിനായി തിരയുകയാണ് അവരുടെ പങ്കാളിത്തം മറ്റ് കാഴ്ചപ്പാടുകളിൽ ഞങ്ങൾ നിർവ്വചിക്കുന്നു അതിനാൽ ഞങ്ങൾ കമ്മ്യൂണിറ്റിയോട് പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം എന്നാൽ അവർക്ക് എങ്ങനെ എന്ത് എപ്പോൾ എത്രത്തോളം പങ്കെടുക്കാം എന്ന് ഞങ്ങൾ നിർവ്വചിക്കുന്നു അതിനർത്ഥം നിങ്ങൾ പങ്കെടുക്കാൻ ഞാൻ പദ്ധതിയിടുന്നു നിങ്ങൾ പങ്കെടുക്കാൻ ഞാൻ പദ്ധതിയിടുന്നു അതിനാൽ നിങ്ങളുടെ പങ്കാളിത്തം നിങ്ങൾ എങ്ങനെ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം അതിനാൽ നിങ്ങളുടെ പങ്കാളിത്തം നിങ്ങൾ എങ്ങനെ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരുപക്ഷേ എനിക്ക് ശരി പറയാം നിങ്ങൾക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് മൂന്ന് നാല് ചോദ്യങ്ങൾ ചോദിക്കാം അതിനാൽ ഇവിടെ സ്വതന്ത്രമായി ചേരാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്തത് എന്നത് മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് മറ്റൊരു കോണിൽ നിന്ന് നോക്കുകയാണ് പങ്കാളിത്തത്തിന്റെ മാനദണ്ഡം നിർവചിക്കുന്നതിനുപകരം പങ്കാളിത്തത്തിന്റെ അർത്ഥമെന്താണെന്ന് സമൂഹം തന്നെ നിർവചിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഞങ്ങൾ പങ്കാളിത്തത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് നിർവചിക്കും ഇത് ഉപയോക്തൃ അധിഷ്ഠിത സമീപനമാണെന്ന് വിളിക്കുക ആരുടെ പങ്കാളിത്തം ഞങ്ങൾ തേടുന്നുവോ അവർ പങ്കാളിത്തത്തിന്റെ മാനദണ്ഡം നിർവചിക്കും ഇത് ഒരുതരം സെൽഫി എടുക്കുന്നത് പോലെയാണ് കുഴപ്പമില്ല അതിനാൽ വിജയകരമായ ഒരു കമ്മ്യൂണിറ്റി പങ്കാളിത്തം പ്രക്രിയയുടെയും ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ എന്തായിരിക്കണം എന്ന് നിർവ്വചിക്കാൻ ഞങ്ങൾ കമ്മ്യൂണിറ്റിയോട് ആവശ്യപ്പെട്ടു പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഘാനയിലാണ് ഞങ്ങൾ ഈ പഠനം നടത്തിയത് ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം ദുരന്തസാധ്യതയുള്ള ഒരു സമൂഹത്തെ സ്വാധീനിച്ചു പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശമായ വാ റീജിയൻ ഘാനയുടെ വടക്കൻ ഭാഗം അവരുടെ തലസ്ഥാന നഗരമായ അക്രയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ പ്രദേശത്തിന്റെ അതിനാൽ അവർക്ക് വെള്ളപ്പൊക്കവും വരൾച്ചയും ഒരുപോലെ പ്രശ്നങ്ങളുണ്ട് ഈ കലണ്ടർ വികസിപ്പിച്ചെടുത്തത് കർഷകരോ പ്രദേശവാസികളോ സ്വയം ചിത്രീകരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം വിവരിച്ചുകൊണ്ട് സാധാരണവും സുസ്ഥിരവുമായ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ സാധാരണ കലണ്ടറിൽ അവർക്ക് അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം വിവരിക്കുന്നു സെപ്തംബർ വരെയും പിന്നീട് ഒക്ടോബറിൽ ചെറിയ മഴയും നവംബർ മുതൽ മാർച്ച് വരെ ഈ വരണ്ട കാലവുമാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഇപ്പോൾ മഴയുടെ ആരംഭം ഇപ്പോൾ മഴയിൽ നിന്ന് മാറി ഇപ്പോൾ ഏപ്രിൽ മുതൽ മെയ് വരെ മാറുന്നു ചിലപ്പോൾ അത് ജൂണിലേക്കും നീങ്ങുന്നു മെയ് വരെ ഇപ്പോഴും നല്ലതായിരിക്കും എന്നാൽ ജൂൺ മുതൽ ജൂലൈ വരെ ഈ നീക്കം വരുമ്പോൾ ഒരു സാഹചര്യം ഒരു വരൾച്ച പോലെയാണ് വരൾച്ചയ്ക്ക് ശേഷം അവ വളരെ അസ്ഥിരമായ മഴയാണ് ഒരുപക്ഷേ ഓഗസ്റ്റ് സെപ്തംബർ മാസങ്ങളിൽ വളരെ തീവ്രമായ മഴ അതിനാൽ ആദ്യം മഴയില്ല അവർ ജലക്ഷാമവും വരൾച്ചയും അഭിമുഖീകരിക്കുകയായിരുന്നു തുടർന്ന് അവർക്ക് വളരെ കനത്ത മഴ ആണ് പിന്നെ വീണ്ടും ഈ സീസണൽ ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നമ്മൾ അവിടെ പ്രോത്സാഹിപ്പിക്കേണ്ട ചെറുതും വലുതുമായ ഇടപെടൽ അവരെ ഒരുക്കേണ്ടതുണ്ട് ഈ സ്ഥലത്ത് നിരവധി പ്രോജക്ടുകൾ നടക്കുന്നുണ്ട് ഈ പ്രോജക്റ്റുകളിൽ പലതും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിലും കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ പദ്ധതികളിൽ ഭൂരിഭാഗവും പദ്ധതികളിലേക്ക് പ്രദേശവാസികളുടെ സംയോജനവും പങ്കാളിത്തവും വാദിക്കുന്നവയാണ് കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത നിവാരണ പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള ഈ പദ്ധതികളിൽ ആളുകൾ ഈ പ്രോജക്റ്റുകളെ എങ്ങനെ കാണുന്നു അവർക്കുള്ള പങ്കാളിത്തം എന്തൊക്കെയാണ് അവർക്ക് ഈ പ്രോജക്റ്റുകളിൽ കൂടുതൽ നന്നായി ഇടപെടാൻ കഴിയുമെന്ന് അവർക്ക് എങ്ങനെ തോന്നുന്നു എന്ന് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പഠനകാലത്തെ ചില ഫോട്ടോഗ്രാഫുകൾ ഇതാണ് അവർക്ക് ഒരു മേധാവിത്വ സംവിധാനമുണ്ട് എല്ലാം ചീഫ് തീരുമാനിക്കുന്നു പരമ്പരാഗത രാജാവ് അല്ലെങ്കിൽ ഭരണസംവിധാനം ഇവയാണ് പഠനമേഖലയുടെ ചില ഫോട്ടോഗ്രാഫുകൾ വെസ്റ്റ് ഡിസ്ട്രിക്റ്റായ വാ ഡിസ്ട്രിക്ടിലെ ചീറ്റാനഗ ബാങ്ക്പമാ സോവയെലി ബലിയവാഫിലി എന്നിവിടങ്ങളിലെ നാല് ഗ്രാമങ്ങളിൽ ഞങ്ങൾ ഈ സർവേ നടത്തി ഞങ്ങൾ ജനങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും പൊതു പങ്കാളിത്തത്തെക്കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവരോട് ചോദിക്കുകയും പൊതു പങ്കാളിത്തത്തിൽ നിന്നുള്ള ഫലങ്ങൾ എന്താണെന്നും അവർ ആഗ്രഹിക്കുന്ന പ്രക്രിയ എന്താണെന്നും ഞങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അവർക്ക് 2007 2010 ൽ വെള്ളപ്പൊക്കമുണ്ടായി പ്രക്രിയയിൽ എല്ലാ ഗ്രൂപ്പുകളുടെയും പ്രാതിനിധ്യം വ്യക്തമായ ലക്ഷ്യങ്ങൾ യോജിച്ച ലക്ഷ്യങ്ങൾ തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള ശക്തി സമൂഹവുമായുള്ള തുടർബന്ധം പ്രാദേശിക അറിവുകൾ ഉൾപ്പെടുത്തൽ നല്ല സഹായകൻ എന്നിവ ഉണ്ടായിരിക്കണമെന്ന് ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒപ്പം ഫലവും ലിവേലിഹുഡ് സെക്യൂരിറ്റി പ്ലാൻ ഇമ്പ്ലിമെന്റഷൻ ഓണർഷിപ് സെല്ഫ് റിലൈൻസ് ടൈം എഫക്റ്റീവ് എന്നിങ്ങനെ അതിനാൽ ലിവേലിഹുഡ് സെക്യൂരിറ്റി എനിക്ക് വിശക്കുമ്പോൾ എനിക്ക് ഒരു പദ്ധതിയിലും പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അവർക്ക് തോന്നുന്നു അതിനാൽ ലിവേലിഹുഡ് സെക്യൂരിറ്റി നിർണായകമാണ് പ്ലാൻ ഇമ്പ്ലിമെന്റഷന്സ് നിങ്ങൾ സംസാരിച്ചു സംസാരിച്ചു സംസാരിച്ചു ഇരിക്കുന്നത് മാത്രമല്ല സാധ്യമായ ചില ഫലം മാത്രമേ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഓണർഷിപ് എന്നാൽ കൂടുതലും സ്വാശ്രയത്വമാണ് നമുക്ക് നിരവധി ആശയങ്ങൾ ഉണ്ട് എന്നാൽ നമുക്ക് പിന്തുടരാൻ കഴിയില്ല അതിനാൽ നമുക്ക് നമ്മുടെ സ്വന്തം പ്രോജക്റ്റുകൾ പിന്തുടരാൻ കഴിയുന്ന തരത്തിൽ ശാക്തീകരിക്കപ്പെടണം അത് സമയവും ഫലപ്രദവും എല്ലാ ഗ്രൂപ്പുകളുടെയും പ്രാതിനിധ്യവും അംഗീകരിക്കപ്പെട്ടിരിക്കണം പദ്ധതികളിൽ വ്യക്തവും ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കണം തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള സമ്മതമുള്ള ലക്ഷ്യങ്ങൾ സമൂഹവുമായുള്ള ബന്ധം തുടരണം അതിനാൽ ഇവയാണ് ഞങ്ങൾ കണ്ടെത്തിയ മാനദണ്ഡങ്ങൾ അതിനാൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ നിർവചിക്കുന്നതിനുപകരം കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിന്റെ അർത്ഥം എന്താണെന്ന് തീരുമാനിക്കുന്ന സമൂഹത്തിൽ നിന്നായിരിക്കണം